എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വകുപ്പ് ഐ ഐ ടി റൂർക്കി പൈതൃകത്തെ അപകടത്തിലാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ചർച്ചചെയ്യാൻ പോകുന്നു പ്രത്യേകിച്ച് തായ്ലൻഡ് രാജ്യത്തിന്റെ പുരാതന തലസ്ഥാനമായ ആയുത്തായയുടെ കാര്യത്തിൽ അതിനാൽ ഞാൻ വിവിധ റിപ്പോർട്ടുകളും വളരെ വ്യത്യസ്തമായ വിശകലനങ്ങളും വെള്ളപ്പൊക്ക അപകടസാധ്യത വിശകലനവും അവർ എന്ത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നിവയിലൂടെ കടന്നു പോകുന്നതായിരിക്കും അതിനാൽ പൈതൃക പശ്ചാത്തലം എങ്ങനെ അപകടസാധ്യതയിലാണെന്നതിന്റെ ചുരുക്കവിവരണമാണിത് പൈതൃക പശ്ചാത്തലത്തിലേക്ക് വരുന്നതിനുമുമ്പ് തായ്ലൻഡിനെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായ ധാരണ നിങ്ങളെ അറിയിക്കാം തായ്ലൻഡിലെ മിക്ക സാഹിത്യങ്ങളും പതിമൂന്നാം നൂറ്റാണ്ടിലേയ്ക്ക് പോകുന്നു അത് കൂടുതൽ വ്യക്തമായി ഞങ്ങൾ കണ്ടെത്തി അവിടെയാണ് നിങ്ങൾക്ക് ലന്ന രാജ്യം കാണാൻ കഴിയുന്നത് ആദ്യത്തെ പുരാതന രാജ്യത്തിന്റെ ഡാറ്റയാണിത് ഇതാണ് സുഖോത്തായി അതിനാൽ ലന്ന രാജ്യം തായ്ലാൻഡിന്റെ വടക്കൻ ഭാഗത്താണ് ചിയാങ് മായ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബാങ്കോക്ക് ഇവിടെ നിന്നാണ് വരുന്നത് ആയുത്തയ ഇവിടെ എവിടെയോ വരുന്നു ഇപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ നിന്ന് പതിനാലാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചുപോയാൽ ഇവിടെയാണ് അയ്യൂതായ ലന്ന നിങ്ങൾക്ക് ഈ അയോത്തയ അയോദ്ധ്യ എന്നിവ കാണാൻ കഴിയുന്നത് അയോത്തയ അല്ലെങ്കിൽ അയോദ്ധ്യ എന്ന പേര് കേട്ടപ്പോൾ ഇത് യഥാർത്ഥത്തിൽ രാമായണത്തിലെ പുരാണ കഥകളെ പ്രതിഫലിപ്പിക്കുന്നു ഇതിഹാസങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള രാമായണം ഇന്ത്യൻ സംസ്കാരവും തായ് സംസ്കാരവും തമ്മിൽ വളരെയധികം സാമ്യതകളുണ്ട് വാസ്തവത്തിൽ ഇന്തോനേഷ്യൻ സംസ്കാരങ്ങൾ പോലും തായ് സംസ്കാരങ്ങളോട് സാമ്യതകളുണ്ട് ഈ പ്രത്യേക ഇതിഹാസം പങ്കിട്ട ചില സമാനതകൾ ഉണ്ട് സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാവണനുമായി യുദ്ധം ചെയ്യാൻ ശ്രമിച്ച ഒരുതരം പക്ഷിയായ ജടായുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാസ്തവത്തിൽ തായ്ലൻഡിന്റെ ദേശീയ ചിഹ്നം യഥാർത്ഥത്തിൽ ജടായു ആണ് നമ്മുടെതിന് സമാനമായ ഇതിഹാസങ്ങൾ അവർ പങ്കിടുന്നു മാത്രമല്ല ഇത് രാമന്റെ ജന്മസ്ഥലത്തെയും പ്രതിഫലിപ്പിക്കുന്നു ലങ്കയെ കണ്ടെത്തുന്നതിനുള്ള ഒരു രേഖയുണ്ടെന്നതുപോലുള്ള വിവിധ പഠനങ്ങളുണ്ടായിട്ടുണ്ട് തായ്ലൻഡിലും ഇന്ത്യൻ ഭൂഖണ്ഡത്തിലും അയ്യൂതയെ എങ്ങനെ സ്ഥാനീകരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത ധാരണകളെക്കുറിച്ച് അവർ ചർച്ചചെയ്തു ആ തലമുറയിൽ നിന്നോ അക്കാലം മുതൽ ഇന്നുവരെ ഒരുപാട് ഭൌമശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ അക്കാലത്തെ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയില്ലായിരിക്കാം പക്ഷേ കഥ പ്രതിഫലിപ്പിക്കുകയും തലമുറ തലമുറകളായി ഇന്നും തുടരുകയും ചെയ്യുന്നു കൂടാതെ ആയുത്തായയും രാമനെ പ്രതിഫലിപ്പിക്കുന്നു ഇത് തായ്ലൻഡിൽ നിന്നുള്ള എന്റെ ബുറിൻ തരാവിചിറ്റ്കുന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തായ് ഐഡന്റിറ്റിയിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്ന് അടിസ്ഥാനപരമായി അതിന്റെ ചരിത്രപരമായ വശങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ ശേഖരിച്ചതായി എനിക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ സുഖോത്തായി ക്രമേണ അയ്യത്തായയായിത്തീർന്നിരിക്കുന്നു ഇത് ആയുത്തായ രാജ്യമാണെന്നും 13 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടാണെന്നും നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ സിയാമിയായ ചിയാങ് മായ് പ്ലസ് സിയാം ഇപ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ചിയാങ്ങിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ലന്നയുടെ ഭാഗം വളരെ പരിമിതമാണ് അവിടെയാണ് ചിയാങ് മായ് ഇപ്പോഴും അതിന്റെ പരമ്പരാഗത സ്വത്വത്തെയും സാംസ്കാരിക വിഭവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് ചരിത്രപരമായ പാളികൾ തായ്ലൻഡിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ധാരണ ഇങ്ങനെയാണ് ബാങ്കോക്ക് തായ്ലാൻഡിന്റെ തലസ്ഥാന നഗരമായും ചിയാങ് മായ് ഒരുതരം സാംസ്കാരിക തലസ്ഥാനമായും മാറുന്നു അതിനാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ പതിമൂന്നാം നൂറ്റാണ്ടിലോ സുഖോത്തായി ലന്നാ രാജ്യത്തെ ഫ്രെയിം ചെയ്ത 1350 മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള ആയുത്തയയെക്കുറിച്ചും ബുറിൻ ടൈംലൈൻ ഉണ്ടാക്കിയിരുന്നു യുദ്ധത്തിൽ ബർമീസ് ആയുത്ത രാജ്യം നശിപ്പിക്കുകയും ചെയ്തു അവിടെയാണ് സിയാം സാമ്രാജ്യമായ സിയാം പതിനേഴാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചത് നിങ്ങൾക്ക് രാമൻ 5 നെ അവിടെ കാണാം അതിനാൽ അവരുടെ രാജകീയനാമങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ കിംഗ് രാമ 1 രാമ 2 രാമ 3 എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ബർമേഷ്യൻ വിഭാവനയിലും സ്വാധീനം ചെലുത്തുന്നു അതിനാൽ നമ്മൾ ആയുത്തായയെക്കുറിച്ചും തലസ്ഥാനമായതിനെക്കുറിച്ചും സംസാരിക്കുന്ന സമയമാണിത് വാസ്തുവിദ്യയുടെ കാര്യത്തിൽ വീടുകളുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്ത ചരിത്രപരമായ സ്വാധീനങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു കൂടാതെ വ്യത്യസ്ത വിശ്വാസ സമ്പ്രദായങ്ങളും വാസ്തുവിദ്യയിൽ ചില പ്രധാന വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അവർ രൂപകൽപ്പന ചെയ്ത പരമ്പരാഗത വീടുകൾ പലതും ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയ്ക്കായാണ് ഇത്തരത്തിലുള്ള കാലാവസ്ഥയ്ക്ക് വെന്റിലേഷൻ വളരെ അത്യാവശ്യമാണ് കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും ഒരു വശമാണ് കൂടാതെ മതപരമായ ഒരു വശവുമുണ്ട് സീനിയോറിറ്റി അധികമായുള്ള ബുദ്ധമതവും ഉണ്ട് അതാണ് കെട്ടിടത്തിന്റെ രൂപവും ചെങ്കുത്തായ മേൽക്കൂരയും ചൂട് ഉൽപാദനത്തിനും കനത്ത മഴയ്ക്ക് വേഗത്തിൽ ഡ്രെയിനേജ് ചെയ്യുന്നതിനും കാരണം ഇത് വളരെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശമാണ് ഒരു സപ്പോർട്ടിംഗ് സ്റ്റിൽറ്റ്സ് ഒരു ബഫർ ഏരിയ തണുത്ത ഇരിപ്പിടങ്ങളിലേക്ക് വായുസഞ്ചാരം പ്രദാനം ചെയ്യുക കാലാനുസൃതമായ വെള്ളപ്പൊക്കം ഒഴിവാക്കുക ഇതിനാലാണ് എല്ലാ വീടുകളും ഒരു സ്റ്റിൽട്ടിൽ നിർത്തുന്നത് അതിനാൽ തായ്ലൻഡിന്റെ മധ്യഭാഗത്തുള്ള ഒരു പരമ്പരാഗത വീടുകൾ ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പോലെ മുഴുവൻ വീടും സ്റ്റിൽട്ടുകളായി നിർത്തുന്നു അങ്ങനെയാണ് മുഴുവൻ പ്രോഗ്രാമും ചിയാങ് മായ് ബാങ്കോക്ക് എന്നിവിടങ്ങളിൽ ഇത് ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് കാരണം ഇത് ഒരുതരം മെട്രോപൊളിറ്റൻ ആണ് അതിനാൽ തലസ്ഥാന നഗരവും ഇത് ഒരു സാംസ്കാരിക മൂലധനവുമാണ് ലാന വീടും സയാമീസ് വീടും അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നത് നോക്കാം അവരുടെ ഓറിയന്റേഷന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം അവരുടെ ഘടനയുടെ കാര്യത്തിലും നിന്നറിയാം നിങ്ങൾക്ക് ചാൻ ഉള്ളതുപോലെ അവർ അതിനെ ടെറസ് എന്നു വിളിക്കുന്നു ടെൻ വരാന്ത അടുക്കള അതിൽ നിന്ന് അൽപ്പം ഒറ്റപ്പെട്ടു നിൽക്കുന്നു അങ്ങനെയാണ് ഇത് ഒരു അടുക്കള ഇത് ഒരു ചാൻ ആണ് അവിടെ അവർ വിത്തുകൾ പുറത്തെടുക്കുന്നതുപോലുള്ള ചില കാർഷിക പ്രവർത്തനങ്ങൾ പോലും ചെയ്യുന്നു മറ്റ് കാര്യങ്ങളും ഇങ്ങനെയാണ് സാധാരണ ഒരു ടെറസ് ലേയൌട്ട്ൻറെ കാര്യത്തിൽ ഇതിൽവളരെ ചെറിയ വ്യത്യാസങ്ങൾ കാണാം നിങ്ങൾക്ക് അറിയാവുന്ന ആനിമിസ്റ്റ് വിശ്വാസ സംവിധാനങ്ങളുമായി ലാന ഹൌസ്സ് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെയാണ് അവർ ഒരു എരുമയുടെ ആകൃതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് കാരണം അവർ ആനിമിസത്തിൽ വിശ്വസിക്കുന്നു അത് കുടുംബത്തിന് സംരക്ഷണവും സന്തോഷവും നൽകുന്നു അതേസമയം സയാമീസ് ഭവനം അല്ലെങ്കിൽ തായ് ഭവനം ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ബുദ്ധമതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിന്റെ ആത്മീയ വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ഒരു പുരാതന രാജ്യമായിരുന്ന ആയുത്തയയിലേക്ക് വരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ രാമന്റെയും ആയുത്തയയുടെയും ജന്മസ്ഥലമായ രാമനെക്കുറിച്ചുള്ള ചില കഥകളും ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ തായ് ഭാഷയിൽ 1351 ൽ യു തോങ് രാജാവ് ലോപ് ബൂറിയിൽ വസൂരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനായി അവിടെയെത്തി അത് തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു ഇതിനെ പലപ്പോഴും അയ്യൂതയ രാജ്യം അല്ലെങ്കിൽ സിയാം എന്ന് വിളിക്കുന്നു അവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ച സുഖോത്തായിയുടെ രണ്ടാമത്തെ സയാമീസ് തലസ്ഥാനമായി അയ്യൂതയ മാറിയത് ഇത് രണ്ടാമത്തെ തലസ്ഥാനമായി മാറി ചാവോ ഫ്രയ ലോപ്ബുരി പസക് നദികളുടെ ജംഗ്ഷനിലാണ് ഈ നഗരം സ്ഥിതിചെയ്യുന്നത് ഇത് മിക്കവാറും ഒരുതരം ഡെൽറ്റ തരത്തിലുള്ളതാണ് അതിനാൽ ഈ പ്രത്യേക ചരിത്രനഗരത്തിന് ചില മതപരമായ അർത്ഥങ്ങളും ചരിത്രപരമായ ധാരണയുമുണ്ട് ഒരു സാംസ്കാരിക പ്രാധാന്യവും സാംസ്കാരിക സമഗ്രതയും ഈ ചരിത്ര നഗരത്തെ യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക സന്ദർഭവുമുണ്ട് ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ ബർമീസ് സൈന്യം ഇത് നശിപ്പിച്ചു പിന്നീട് ഇത് ഒരു സ്കൂൾ ലോക പൈതൃക സൈറ്റിലേതായി അംഗീകരിക്കപ്പെട്ടപ്പോൾ അയ്യൂതായ ചരിത്ര പാർക്കായി പരിവർത്തനം ചെയ്യപ്പെട്ടു ഇവിടെയാണ് ഇത് മികച്ച രീതിയിൽ പ്രതിഫലിച്ചത് OUV യെക്കുറിച്ച് നമ്മൾ സാർവത്രികമായി സംസാരിക്കുമ്പോഴാണ് പ്രധാനമായും രണ്ട് മൂന്ന് പ്രധാന രേഖകളെക്കുറിച്ചും സാംസ്കാരിക പൈതൃക മേഖലകളിലെ വെള്ളപ്പൊക്ക സാധ്യത വിലയിരുത്തുന്നതിനെക്കുറിച്ചും അത് അയ്യൂതായയിൽ എങ്ങനെ പ്രയോഗിച്ചുവെന്നതിനെക്കുറിച്ചും സംസാരിക്കുന്ന ഈ പ്രത്യേക പ്രബന്ധത്തെക്കുറിച്ചും ഞാൻ പരാമർശിക്കാൻ പോകുന്നു ഇത് പ്രകൃതിദുരന്തങ്ങളെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ഒരു കൂട്ടം രചയിതാക്കളിൽ സോറൻ വോനോവിക്ക് മൈക്കൽ ഹാമണ്ട് ഡാരിയ ഗോലുബ് സിയാനി ഹിരുൺസാലി Zoran Vojinnovic and Michael Hammond Daria Golub Sianee Hirunsalee കൂടാതെ അവർ യഥാർത്ഥത്തിൽ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ചതായി നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരുമാണ് ആദ്യം അവർ നിങ്ങൾക്കറിയാവുന്ന ഒരു വെള്ളപ്പൊക്ക അപകടസാധ്യത വിലയിരുത്തലിനെക്കുറിച്ച് സംസാരിക്കുന്നു കാരണം അത് എഫ്ആർഎയാണ് ഇതിനെ വെള്ളപ്പൊക്ക അപകടസാധ്യതാ വിലയിരുത്തൽ എന്ന് വിളിക്കുന്നു ഇത് പരമ്പരാഗത സമീപനത്തിലെ ഒരു പരമ്പരാഗത സമീപനമെന്ന നിലയിൽ വളരെ അടിസ്ഥാന കീ ഉപകരണമാണ് പ്രളയസാധ്യത മനസിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക അതിനാൽ എഫ്ആർഎ ടെക്നിക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ജോലികളും കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വശങ്ങളിലേക്കോ അല്ലെങ്കിൽ ടാർഗെറ്റിലേക്കോ ആണ് അത് എത്രമാത്രം സ്വാധീനിച്ചു അല്ലെങ്കിൽ അവയുടെ കാരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വസ്തുവകകൾക്കും ബിസിനസ്സ് വിവരണത്തിനും കേടുപാടുകൾ സംഭവിക്കുന്നതിനുള്ള ചെലവ് അത് സാമ്പത്തികമായി കണക്കാക്കാമെന്ന് നിങ്ങൾക്കറിയാം ഇത് കണക്കാക്കാവുന്ന ഈ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ മുഴുവൻ ഫലങ്ങളെയും പ്രതിഫലിപ്പിക്കരുത് ഉദാഹരണത്തിന് പണത്തിന്റെ വശങ്ങളെക്കുറിച്ച് മാത്രമല്ല ഒരു ഭൌതിക വശമുണ്ട് കൂടാതെ അദൃശ്യമായ വർഷങ്ങളുടെ പണേതര വശങ്ങൾ FRA ഉപകരണങ്ങളിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുള്ള സാംസ്കാരിക പൈതൃകത്തിന്റെ നഷ്ടവും ജീവിതവും നഷ്ടപ്പെടുന്നതും ഇവിടെയാണ് ഏതെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ ജലശാസ്ത്രജ്ഞർ പല ജലവൈദ്യുത മോഡലുകളെക്കുറിച്ചും 1 ഡി മോഡൽ 2 ഡി മോഡലുകളായും സംസാരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ മഴയെ ഉപരിതല പ്രവാഹമായി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ജലത്തിന്റെ അളവ് എത്രയാണെന്നും എത്രത്തോളം ഉപരിതല ഒഴുക്ക് നടക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം ഇതെല്ലാം അതിന്റെ അളവ് വശത്തെയും മോഡലിംഗിനെയും അതിന്റെ സിമുലേഷൻ വശത്തെയും കുറിച്ചാണ് അതേസമയം ദുർബലതാ വിലയിരുത്തലിൽ അത് യഥാർത്ഥത്തിൽ സൈറ്റ് സ്പെസിഫിക് സൂചകങ്ങൾ അല്ലെങ്കിൽ അളവുകൾ ഉപയോഗിച്ച് വിലയിരുത്തപ്പെടുന്നു ഇവിടെയാണ് ഒന്നിലധികം മാനദണ്ഡ രീതികളാൽ സംയോജിപ്പിക്കേണ്ട ഒന്നിലധികം വശങ്ങൾ ഗുണപരമായ വശങ്ങളും ഉണ്ട് സാമ്പത്തിക വശവുമുണ്ട് കന്നുകാലിയുണ്ട് ഉപജീവനമാർഗമുണ്ട് മനുഷ്യനഷ്ടമുണ്ട് സ്വത്ത് നാശനഷ്ടമുണ്ട് അടിസ്ഥാന നാശനഷ്ടവുമുണ്ട് ഇത് വ്യത്യസ്തമായ ഇംപാക്റ്റ് സാഹചര്യങ്ങളാണ് അത് സൈറ്റിൽ നിന്ന് സൈറ്റിലേക്ക് വ്യത്യാസപ്പെടുന്നു എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സംസ്കാരത്തെ ഒരു പ്രധാന സാംസ്കാരിക ദുർബലതയായി നാം കാണേണ്ടതുണ്ട് അതിനാൽ രചയിതാക്കൾ പരമ്പരാഗത സമീപനവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ രണ്ട് സമീപനങ്ങളുണ്ട് R റിസ്ക് ഹസാർഡ് Rriskhazard അപകടസാധ്യത അതിലേക്ക് ചേർക്കുമ്പോൾ അവിടെയാണ് റിസ്ക് ഘടകം അതിലേക്ക് വരുന്നത് റിസ്ക് പെർസെപ്ഷൻ സമീപനം കമ്മ്യൂണിറ്റികളും ആളുകളും എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നതാണ് ഇവിടെ അവർ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ അപകടസാധ്യതയുടെ നിലവാരത്തിന് കാരണമായ ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ അവസ്ഥകളും ഭൂവിനിയോഗ മേഖലകളും തുറന്ന ജനസംഖ്യാശാസ്ത്രപരമായ സാമൂഹിക ഉപയോഗത്തിന്റെ ഭൂവിനിയോഗവും രാഷ്ട്രീയ സ്ഥാപനങ്ങളും ഭരണവും ഇവിടെ നാം അതിന്റെ മനസ്സിലാക്കുന്ന വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറിവിന്റെ നിലവാരവും മാധ്യമങ്ങളും വിദഗ്ദ്ധരുടെ സാംസ്കാരിക സ്ഥാപനങ്ങളിലുള്ള വിശ്വാസവും മൂല്യങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങൾ അവർ മനസിലാക്കിയ മുൻകാല അനുഭവങ്ങളും ദുരന്ത സവിശേഷതകൾ ഇവിടെയാണ് വെള്ളപ്പൊക്ക വ്യാപ്തി വെള്ളപ്പൊക്ക ആവൃത്തി അനിശ്ചിതത്വം പ്രത്യക്ഷവും പരോക്ഷവുമായ സ്പഷ്ടമായതും അദൃശ്യവുമായ നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ ഇവിടെയാണ് വീണ്ടും പെർസെപ്ഷൻ പരിചയം നിയന്ത്രണക്ഷമത സ്വമേധയ വിധേയമാകൽ ദുരന്ത സാധ്യത എന്നിവ വരുത്തുന്നത് മൂല്യനിർണ്ണയ രീതികൾ ഹൈഡ്രോളജിക്കൽ ഹൈഡ്രോളിക് മോഡലിംഗിലേക്ക് അവ ചുരുങ്ങിയേക്കാം വെള്ളപ്പൊക്ക ഭൂപടങ്ങളും ഇതെല്ലാം ഒഴികെ ആഴത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ അവർ ഹ്യൂറിസ്റ്റിക്സ് കോഗ്നിഷൻ അവബോധം heuristics cognition and intuitions എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്താണ് അത് ഒരു അപകടകരമായ മാപ്പും ദുർബലമായ മാപ്പും എടുക്കുന്നു അങ്ങനെയാണ് ഒരു വെള്ളപ്പൊക്ക മാപ്പ് പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നാൽ റിസ്ക് പെർസെപ്ഷൻ റിസ്ക് സ്വീകാര്യത ആർക്കാണ് പിന്നെ അവർ എങ്ങനെയാണ് ഇതിന് തയ്യാറാകുന്നത് അവർ എങ്ങനെയാണ് റിസ്ക് സ്വീകരിക്കുന്നത് അതിനാൽ ഇത് വീണ്ടും സാമൂഹികവും സമൂഹത്തിൽ നിന്നും വരുന്നു ഇത് വളരെ കമ്മ്യൂണിറ്റി നിർദ്ദിഷ്ടമാണ് സമൂഹം അവർ അത് എങ്ങനെ കാണുന്നുവെന്നും അവർ എങ്ങനെ പെരുമാറുന്നുവെന്നും വ്യക്തമാക്കുന്നു ഇപ്പോൾ നിങ്ങൾ നഗരപ്രദേശത്ത് സ്ഥിതിചെയ്യുന്ന ആയുത്തായ ദ്വീപ് നോക്കുമ്പോൾ ഈ ദ്വീപിന്റെ മൂന്നിലൊന്ന് ലോക പൈതൃക സൈറ്റിന് കീഴിലാണ് ദ്വീപിന്റെ മുഴുവൻ ഭാഗവും നദീതടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം വരുന്ന രണ്ട് ദേശങ്ങളും ഈ രചയിതാക്കൾ ചെയ്യാൻ ശ്രമിച്ചതും അവർ രണ്ടിന്റെയും രണ്ട് രീതികളും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു ഒന്ന് അതിന്റെ ശാസ്ത്രീയ സമീപനമാണ് രണ്ടാമത്തേത് അതിനോടുള്ള സാമൂഹിക സമീപനമാണ് അതിനെക്കുറിച്ചുള്ള ധാരണ അവ യഥാർത്ഥത്തിൽ ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണുക 1 ഡി മോഡലിനെക്കുറിച്ചുള്ളത് പോലെ ഇത് ഒരു ചാവോ ഫ്രയാ നദിയുടെ 52 കിലോമീറ്റർ വിസ്തൃതിയുള്ള 1 ഡി മോഡൽ അതിൽ ധാരാളം പോഷകനദികളുണ്ട് അതിൽ ലോപ്ബുരി പസക് നദികൾ Lopburi Pasak rivers ഉൾപ്പെടുന്നു അവ യഥാർത്ഥത്തിൽ അയുത്തായയിൽ കണ്ടുമുട്ടുന്നു എന്നാൽ അവർ ധാരാളം റെയിൻ ഫോൾ ഡാറ്റയും 4 റെയിൻ ഗേജുകളും ശേഖരിച്ചു തുടർന്ന് ഈ 1 ഡി മോഡലിനൊപ്പം നഗര പ്രദേശത്തെ 2 ഡി മോഡലും ചേർത്ത് അധിക വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു അങ്ങനെ എത്രത്തോളം വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടത് എന്നു മനസ്സിലാക്കുക പസക് ലോപ്ബുരി ചാവോ ഫ്രയാ നദികളുടെ 1 ഡി റിവർ സിസ്റ്റത്തിൽ നിന്ന് ഉപയോഗത്തിലേക്ക് അവർ DHI MIKE വെള്ളപ്പൊക്ക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തീവ്രത സാറ്റലൈറ്റ് ഡാറ്റയിൽ നിന്ന് 2 മീറ്റർ ഗ്രിഡ് സ്കെയിൽ റെസല്യൂഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആയുത്ത ഭൂമിയുടെ ഈ കോണ്ടൂർ ടോപ്പോഗ്രാഫി വികസിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ചും വെള്ളത്തിൽ മുങ്ങിയ പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെക്കുറിച്ചും നിങ്ങൾക്കറിയാം പിന്നീട് ശാരീരിക ദുർബലത ശാരീരിക ദുർബലത വിലയിരുത്തുന്നതിന് 4 അന്തർനിർമ്മിത പരിതസ്ഥിതിയിലെ 4 വ്യത്യസ്ത ക്ലാസുകൾ തിരിച്ചറിഞ്ഞു വാസയോഗ്യമായ കെട്ടിടങ്ങൾ സാംസ്കാരിക സ്വത്തുക്കൾ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചർ റോഡുകളും കണക്റ്റിവിറ്റിയും ഓരോ ഗ്രൂപ്പിനുള്ളിലും അവർ അതിന്റെ ദുർബല ഭാഗത്തെ താഴ്ന്നതും ഇടത്തരവും ഉയർന്നതുമായി തരംതിരിക്കുന്നു അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ തൂണുള്ള വീട് ഒരു മാധ്യമത്തിന് വിധേയമായി എന്നാൽ ഉയരത്തിൽ ഒരു നിലയിലുള്ള വീടിനെ അടിസ്ഥാനമാക്കുമ്പോൾ അവ ഉയർന്ന അപകടസാധ്യതയ്ക്ക് വിധേയവുമാണ് അതുപോലെ വെള്ളത്തിൽ മുങ്ങിയ സാംസ്കാരിക സ്വഭാവത്തിലും അവ പുനഃസ്ഥാപിച്ചിട്ടില്ല ആർക്കിയോളജിക്കൽ അവശിഷ്ടങ്ങൾ ഈ സ്വത്തുക്കളിൽ ചിലത് പുനഃസ്ഥാപിക്കപ്പെടുന്നു ഗുരുതരമായ ഇൻഫ്രാസ്ട്രക്ചറിൽ ആശുപത്രികൾ പോലീസ് സ്റ്റേഷനുകൾ എടിഎമ്മുകൾ ജലവിതരണം എന്നിവ ഉൾപ്പെടുന്നു അവയെല്ലാം ഉയർന്ന അപകടസാധ്യതയ്ക്ക് വിധേയമാണ് അസ്ഫാൽറ്റ് റോഡുകൾക്ക് ആണ് കുറഞ്ഞ അപകടസാധ്യതയുള്ളത് ചരൽ റോഡുകളും പാതകളില്ലാത്ത റോഡുകൾക്ക് ആണ് ഉയർന്ന അപകടസാധ്യതയുള്ളത് അങ്ങനെയാണ് അന്തർനിർമ്മിതമായ പരിസ്ഥിതിയെ 3 ദുർബല വിഭാഗങ്ങളായി തരംതിരിക്കുന്നത് എന്നിട്ട് സാമൂഹിക സമീപനത്തിലേക്ക് വന്നപ്പോൾ അവർ ചെയ്തത് പ്രദേശം മുഴുവൻ എട്ട് മേഖലകളായി വിഭജിക്കപ്പെട്ടു എട്ട് മേഖലകളായി ഡെൽറ്റ നദിയും രൂപപ്പെടുന്ന മുഴുവൻ പൈതൃക സ്വത്തുക്കളും കാണാം ഇവിടെ അവർ ചെയ്തത് ഈ പ്രദേശത്തെ മുഴുവൻ റെസിഡൻഷ്യൽ പ്രദേശത്തെയും 8 സെക്ടറുകളായി വിഭജിക്കുകയും ഓരോ മേഖലയിൽ നിന്നുമുള്ള കമ്മ്യൂണിറ്റി പ്രതിനിധികൾ ഗ്രൂപ്പ് മാപ്പിംഗ് പൂർത്തിയാക്കുന്നതിന് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ചെയ്തു അതിനാൽ ഓരോ മേഖലയിലും അവർ വികസിപ്പിച്ചെടുത്ത ഒരു വലിയ പ്രവർത്തികൾ ഉണ്ട് കൂടാതെ ധാരാളം ഇൻവെന്ററികളും ഡാറ്റയും ശേഖരിച്ചു സ്പേഷ്യൽ ഡാറ്റാ ഫോർമാറ്റ് കാരണം രണ്ട് മാപ്പുകളെ താരതമ്യം ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പരമ്പരാഗത വെള്ളപ്പൊക്ക റിസ്ക് മാപ്പ് ഒരു മീറ്റർ റാസ്റ്റർ ഗ്രിഡ് സെല്ലുകൾ ഉപയോഗിക്കുന്നു അതേസമയം റിസ്ക് പെർസെപ്ഷൻ മാപ്പ് വ്യത്യസ്ത വലുപ്പത്തിലുള്ള പോളിഗോണുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരേ സ്ഥലത്തെ ഡാറ്റ താരതമ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഇതാണ് അങ്ങേയറ്റത്തെ വെള്ളപ്പൊക്ക അപകട ഭൂപടം 0 5 മുതൽ 1 5 മീറ്റർ വരെ ആഴത്തിലുള്ള വെള്ളത്തിന്റെ പരിധി മൂല്യങ്ങൾ നൽകുന്ന വെള്ളപ്പൊക്ക ഭൂപടം ഉണ്ട് ഈ പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും 1 5 മീറ്റർ ഉയരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായി കാണുവാൻ കഴിയും തീരത്ത് കുറഞ്ഞത് എല്ലാം വെള്ളപ്പൊക്കത്തിലാണെന്ന് കാണുവാൻ കഴിയും അങ്ങനെയാണ് അവർ അങ്ങനെ ചെയ്തത് അതിന്റെ വിവിധ പാളികളെ തരംതിരിക്കാൻ അവർ ശ്രമിച്ചത് ശാരീരിക ദുർബലത അനുസരിച്ചാണ് ഇപ്പോൾ ശാരീരിക ദുർബലതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം കേടുപാടുകൾ സംഭവിച്ചതും ഇടത്തരം കേടുപാടുകൾ കുറഞ്ഞ കേടുപാടുകൾ സംഭവിച്ചതുമായ സ്ഥലങ്ങൾ ഏതാണ് കൂടാതെ നിർവചിച്ചിട്ടില്ലാത്തവയും അതുപോലെ ഈ കമ്മ്യൂണിറ്റികളിൽ ഭൂരിഭാഗവും മിക്കപ്പോഴും ബാധിക്കപ്പെടുന്ന സോഷ്യൽ ടാർഗെറ്റ് ഗ്രൂപ്പുകളാണ് ഇത് സോഷ്യൽ വൾനറബിളിറ്റി മാപ്പ് ആണ് സാമ്പത്തിക ദുർബലത സാമ്പത്തിക ദുർബലത എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം സംഭവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ബിസിനസ്സ് മേഖല പലപ്പോഴും അടച്ചുപൂട്ടുന്നു കുറച്ച് സമയത്തേക്ക് അടച്ചുപൂട്ടുന്നു അല്ലെങ്കിൽ അവരുടെ കന്നുകാലികൾക്ക് എങ്ങനെ കേടുപാടുകൾ സംഭവിക്കുന്നു ഇതെല്ലാം സാമ്പത്തിക കാര്യത്തിലാണ് വാണിജ്യ വശങ്ങളിൽ ഭൂരിഭാഗവും കേടായതായി അരികുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സാംസ്കാരിക ദുർബലത കൂടാതെ സാംസ്കാരിക സവിശേഷതകളിൽ ഭൂരിഭാഗവും ഉയർന്ന അപകടസാധ്യതയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയാണ് യുനെസ്കോയുടെ ലോകപൈതൃകം എന്ന പൈതൃകം മനസ്സിലാക്കണം ഇത്ഉയർന്ന അപകടസാധ്യതയ്ക്ക് വിധേയമാകുന്നു നാളെ ഇവ തകർന്നുവീഴുകയും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്താൽ നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രം അടയ്ക്കുകയാണ് അടുത്ത തലമുറകൾ സ്വന്തം രാജ്യത്തെക്കുറിച്ച് സ്വന്തം പൂർവ്വികരെക്കുറിച്ച് പഠിക്കേണ്ട ചരിത്രം ഇപ്പോൾ അവർ ചെയ്തത് അവർ ഈ മാപ്പ് സംയോജിപ്പിക്കാൻ ശ്രമിച്ചു ഒരാൾ എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും അവർ എങ്ങനെ സംയോജിപ്പിച്ചുവെന്നതാണ് ഇത് വീണ്ടും ഒരു പരമ്പരാഗത സമീപനത്തിലൂടെ സംയോജിത വെള്ളപ്പൊക്ക റിസ്ക് മാപ്പ് ആണ് അതിനാൽ സാമൂഹിക സമീപനങ്ങളിലൂടെയും വീക്ഷണ സമീപനത്തിലൂടെയും അവരുടെ ശാസ്ത്രീയ സമീപനങ്ങളിലൂടെയും അവർക്ക് സമാനമായ ഒരു കൂട്ടം ഡാറ്റ നേടാൻ കഴിയുമെങ്കിലും തീർച്ചയായും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ശാസ്ത്രീയ സമീപനത്തിൽ കൂടുതൽ സാധ്യമായ ചില സാധ്യതകളുണ്ട് എന്നാൽ ചില വീക്ഷണ സമീപനത്തിൽ അവർക്ക് ചിലതരം ഡാറ്റകളില്ല അതുകൊണ്ടാണ് രചയിതാക്കൾ ഈ റിപ്പോർട്ടിൽ വളരെ നന്നായി ആവിഷ്കരിച്ചത് ഇവയിൽ നിന്ന് അവർക്ക് എന്ത് വശങ്ങൾ നേടാൻ കഴിയുമെന്നും അവയിൽ ഏതെല്ലാം വശങ്ങൾ നേടാൻ കഴിയുന്നില്ലെന്നും ഒരാൾക്ക് ആ റിപ്പോർട്ടിലൂടെ കടന്നുപോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഇവിടെ നാം കാണേണ്ടത് എന്താണ് ഉപഗ്രഹ ഇമേജറിയും സാമൂഹിക ധാരണയും അവ തമ്മിൽ എങ്ങനെ പരസ്പരബന്ധം പുലർത്താൻ കഴിയും കൂടാതെ അവ ഭാഗങ്ങളായി പരസ്പരം വൈരുദ്ധ്യവും അതിന്റെ പ്രളയ വിശകലന ഭാഗത്തെക്കുറിച്ചും വിവിധ രചയിതാക്കൾ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിനെക്കുറിച്ചും ഞാൻ ഇതുവരെ സംസാരിച്ചു എന്നാൽ അതിന്റെ സംരക്ഷണ ഘട്ടത്തിൽ നിന്ന് എങ്ങനെ ICOMOS ചരിത്രപരമായ നഗരമായ ആയുത്തയയെക്കുറിച്ച് അവർ ഏതുതരം റിപ്പോർട്ട് ഹാജരാക്കി 2011 ലെ വലിയ വെള്ളപ്പൊക്കത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഉണ്ട് കൂടാതെ സംരക്ഷണത്തിനായി ചില അടിയന്തിര നടപടികളുടെ അഭാവവും ഉണ്ടായിട്ടുണ്ട് കാരണം ചില അടിയന്തിര പ്രക്രിയകളും സൂചിപ്പിച്ചിരിക്കുന്നു ഈ വെള്ളപ്പൊക്കം മധ്യകാലത്തേയും ദീർഘകാലത്തേയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പൈതൃക സൈറ്റുകളിൽ നിങ്ങൾക്കറിയാം നിഗമനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഇപ്പോൾ എന്തുതരം നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നു ഭാവിയിൽ വലിയ വെള്ളപ്പൊക്കത്തിനെതിരായ നടപടികൾ അതിലൊന്നാണ് വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള സംരക്ഷണം എങ്ങനെ ഈ സൈറ്റുകളെ സംരക്ഷിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾ നിലവിലുള്ള ഈ സൈറ്റ് നോക്കിയാൽ നദി ഈ ക്ഷേത്രങ്ങൾക്ക് ഈ വാട്ട് ചായ് സ്ഥലത്തിന് വളരെ അടുത്താണ് അതിനാൽ എല്ലാം വെള്ളപ്പൊക്കത്തിൽ പെടും അതിനാൽ അടിയന്തര പ്രളയ പ്രതിരോധ തടസ്സം സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറെടുക്കുകയാണ് കോൺക്രീറ്റ് മെറ്റൽ തടസ്സം ഉപയോഗിച്ച് ഒരു കൃത്രിമ തടസ്സം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ചരിത്രപ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകുന്ന വെള്ളപ്പൊക്കത്തെ തടസ്സപ്പെടുത്താൻ ഇത് സഹായിക്കും ഇത് ഒരു വശമാണ് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം ലഘൂകരിക്കാനുള്ള നടപടികളാണ് മറ്റൊരു വശം അതിനാൽ ഏതുതരം നടപടികളാണ് നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി ആളുകൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയാൽ പ്രത്യേകിച്ച് മുള ഒരു വശമാണ് കാരണം അത് സാന്ദ്രമായി വളരുകയും വളർച്ച വളരെ വേഗത്തിലും ആണ് ഇതിനായുള്ള ചില വർഗ്ഗങ്ങൾ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിൽ തോട്ടവും ഒരു സാധ്യതയാണ് അതിനാൽ ചരിത്രപരമായ ഒരു സന്ദർഭമായതിനാൽ ചരിത്രത്തിൽ നിന്നുള്ള പഠനം നോക്കേണ്ടതുണ്ട് ഒരു നഗര മതിലിന്റെ പുനർനിർമ്മാണം പതിമൂന്നാം നൂറ്റാണ്ടിൽ പോലും ഈ ഭൂമിശാസ്ത്രം ഒരു പൈതൃക സൈറ്റായി മാറുന്നതിന് മുമ്പുതന്നെ ഈ ഭൂമിശാസ്ത്രം എങ്ങനെ നിലനിന്നിരുന്നുവെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു ഈ പ്രത്യേക രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി അവർ മുമ്പ് ഒരു മതിൽ പണിതിട്ടുണ്ടാകാം നഗര മതിൽ പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതിനാൽ രാജ്യം നീങ്ങുമ്പോൾ അതിന് സാധ്യതയുണ്ട് അതിനാൽ അവർ ഈ ഇഷ്ടികകളെല്ലാം പുറത്തെടുത്തിരിക്കാം ഒരുപക്ഷേ ഈ പ്രദേശം ഉപേക്ഷിച്ചിരിക്കാം ഇവ ചില വ്യത്യസ്ത സിദ്ധാന്തങ്ങളാണ് അതിനാൽ ഒരു നഗര മതിൽ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നതിനെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിച്ചുവെന്നും ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചുവെന്നും ഉള്ള തിരിഞ്ഞുനോക്കലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരമ്പരാഗത ജ്ഞാനം വീണ്ടും കണ്ടെത്തുന്നതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പരമ്പരാഗത നടപടികൾ ഇവിടെയാണ് അക്കാലത്ത് മനുഷ്യൻ നടപ്പിലാക്കിയ പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ അതിനാൽ നമുക്ക് ഇതിലേക്ക് പുനർവിചിന്തനം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഇത്തരത്തിലുള്ള രീതികൾ വീണ്ടും കണ്ടെത്തുകയും തുടർന്ന് നമ്മുടെ സമകാലീന പരിശീലന സാഹചര്യങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും വേണം അതിനാൽ ചില പഠനങ്ങളെങ്കിലും ചില ദിശകൾ കാണിക്കാൻ സഹായിക്കും മൂന്നാമത്തെ വശം സംരക്ഷണത്തിനും ഉപയോഗത്തിനുമുള്ള സമഗ്ര പദ്ധതിയാണ് കലാ വകുപ്പ് സംരക്ഷണത്തിനും ജീവിതപൈതൃകത്തിനുമായി സമഗ്രമായ ഒരു പദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് തുടർന്ന് അവർ ആയുത്തയ സിമ്പോസിയത്തിന്റെ അന്താരാഷ്ട്ര സിമ്പോസിയത്തെക്കുറിച്ചും സംസാരിച്ചു അവിടെ ആഗോളതലത്തിലുള്ള പ്രളയ പ്രതിരോധത്തിൽ നിന്ന് നമുക്ക് പരസ്പരം എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾക്കറിയാം അത് ഒരുതരം അന്താരാഷ്ട്ര സിമ്പോസിയമാണ് ചില ഫോട്ടോഗ്രാഫുകൾ ഞാൻ അതിലൂടെ കടന്നുപോകും ഒരു പുതിയ ചതുരശ്ര അടിത്തറയുണ്ട് അത് ചില കോൺക്രീറ്റ് ടൈ ബീമുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് അവർ ബേസ് കോൺക്രീറ്റ് ടൈ ബീമുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു അടിത്തറ ഉയർത്താൻ എന്നിട്ട് അതിനെ ഇഷ്ടിക ഭാഗം കൊണ്ട് മൂടി അതിനാൽ പല സ്ഥലങ്ങളിലും ആധികാരികമായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ടൈ ബീം മറയ്ക്കേണ്ടതെന്ന് പ്രത്യേക ശാസ്ത്രീയ പഠനം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ അത്തരം നിഗമനത്തിലെത്തുന്നത് എന്നതിന്റെ ഒരു പാരമ്പര്യവും ആധികാരികതയെക്കുറിച്ചുള്ള ചോദ്യവും ചിത്രത്തിലേക്ക് വരുന്നു ഇത് സംരക്ഷണ പരിശീലനത്തിന്റെ ശരിയായ മാർഗമാണ് അതിനാൽ ഈ പ്രത്യേക പരിശീലനത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട് ഇവയെല്ലാം വീണ്ടും നിർമ്മിച്ച പുതിയ സ്തംഭങ്ങളാണ് മാത്രമല്ല ഘടനാപരമായ ധാരണയിൽ പിന്നോട്ട് പോയ ഒരേയൊരു രീതിയാണോ അതോ പരമ്പരാഗത ധാരണ അവഗണിക്കപ്പെട്ടതാണോ നമുക്ക് ചില വശങ്ങൾ നോക്കാം കൂടാതെ സംരക്ഷണ തത്ത്വചിന്തയും നടപ്പാക്കലും തികച്ചും യോജിച്ചതായിരിക്കണം കാരണം ഒരു വശത്ത് ആധികാരിക പൈതൃകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മറുവശത്ത് നമ്മൾ സംസാരിക്കേണ്ടത് അത് എങ്ങനെ സംരക്ഷിക്കാമെന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവ ശരിക്കും ഒത്തുചേരേണ്ടതിനെക്കുറിച്ചോ ആണ് ഇപ്പോൾ ഈ അനിയന്ത്രിതമായ ഇഷ്ടികപാളികൾ മികച്ച പ്രവർത്തനക്ഷമതയല്ല ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വൃത്താകൃതിയിലുള്ള കുന്നുകൾ നോക്കിയാൽ ആന്ധ്രയിൽ പോലും സമാനമായ ഘടനകളുള്ള സ്തൂപങ്ങൾ ഘണ്ടസാലയിൽ കാണാം ഇഷ്ടിക വലുപ്പങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു അവിടെ ഇഷ്ടിക ഘടകം വളരെ വ്യത്യസ്തമാണ് ബോണ്ടിംഗ് പോലും ബോണ്ടിംഗ് എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ലോഡ് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും വളരെയധികം മെച്ചപ്പെടുത്തലുകൾ നടത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം അവർ അത് ചെയ്തതെന്തും ഇപ്പോഴും ബോണ്ടിംഗ് ശരിയായി ചെയ്തിട്ടില്ലെന്നും ഇഷ്ടിക വലുപ്പത്തിലുള്ള മെറ്റീരിയൽ ഘടകത്തെ പോലും ഉചിതമായി പരിപാലിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ മോർട്ടാർ കുമ്മായം പഴയതും പുതിയതുമായ ലൈമ് മോർട്ടാർ എന്നിവയുടെ ഘടനയും അതിലൂടെ അടിസ്ഥാനപരമായ വ്യത്യാസം മനസ്സിലാക്കാം തീർച്ചയായും സംരക്ഷണത്തിൽ പിന്നീട് ചേർത്തവയെ അത് പ്രതിഫലിപ്പിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് കാരണം ഇതെല്ലാം നമ്മൾ പ്രയോഗിക്കുന്ന സന്ദർഭത്തെക്കുറിച്ചും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു മുഴുവൻ സംരക്ഷണ മാനേജുമെന്റ് പദ്ധതിയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണം കൂടാതെ പാച്ചുകളിൽ വീണ്ടും പ്ലാസ്റ്ററിംഗ് നടത്തുന്നത് ഇവയിൽ പലതും വീണ്ടും പ്ലാസ്റ്ററിട്ടതായും വ്യത്യസ്ത പാച്ച് വർക്ക് ചെയ്തതായും നിങ്ങൾക്കറിയാം പക്ഷേ ഇത് ചെയ്യാനുള്ള ഏക മാർഗ്ഗം ഇതാണ് കാരണം ഇതാണ് പല സംരക്ഷണ പദ്ധതികളിലും കാണുന്ന പതിവ് രീതി അവർ ഇടാൻ ശ്രമിക്കുന്നിടത്ത് ഇത് ഒന്നുകിൽ ലൈമ് പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോമ്പോസിഷൻ കുറച്ച് വ്യത്യാസമുണ്ടാക്കുന്ന ഏറ്റവും അടുത്തുള്ള കോമ്പോസിഷൻ തിരിച്ചെടുക്കണം പുതിയ ടൈലുകൾ ടൂറിസം ആവശ്യങ്ങൾക്കായി അവ എവിടെയാണ് ഉയർത്തിയതെന്ന് നിങ്ങൾക്കറിയാം അത് യഥാർത്ഥത്തിൽ സ്മാരകത്തിന്റെ ആധികാരികതയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അവ നീക്കംചെയ്യുകയും പകരം ഇഷ്ടിക നടപ്പാത ഉപയോഗിച്ച് സ്ഥാപിക്കുകയും വേണം അങ്ങനെ ആധികാരികത നിലനിർത്തേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പുനഃസ്ഥാപിക്കുന്നതിന്റെയും പുനർനിർമ്മാണത്തിൻറെയും സംരക്ഷണ തത്ത്വചിന്തയാണ് എന്നാൽ അത് എവിടെ നിർത്തണം എങ്ങനെ നിർത്താം അതാണ് ഒരു കാര്യം ശരിക്കും ചിന്തിക്കേണ്ടത് നേരായ ജോയിനറുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് മോശം ജോലിയെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അത്തരമൊരു സാഹചര്യത്തിൽ മോശമായ സാഹചര്യങ്ങളിൽ സംരക്ഷണ പദ്ധതികളിലെ പ്രവർത്തനക്ഷമത വളരെ മിതമാണ് എന്നതാണ് പ്രശ്നം അതിനാൽ വിശകലനം എങ്ങനെ നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നിട്ടും സംരക്ഷണത്തിൽ ഉള്ള വെല്ലുവിളികൾ എന്താണെന്നും ഇത് നിങ്ങൾക്ക് തരുന്ന വികസനം എന്താണെന്നും അയുത്തായയുടെ ഹെറിറ്റേജ് സൈറ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി